എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും പേഴ്സണാലിറ്റിയും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ആഴ്ച നമ്പർ 7 മൊഡ്യൂൾ 4 പ്രഭാഷണ നമ്പർ 40 ആണ് ഞാൻ പൊതുവെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ആഴ്ച നമ്മൾ നോൺ വെർബൽ സൂചകങ്ങളെ വ്യാഖ്യാനിക്കാൻ പോകുന്നു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെക്കുറിച്ചുള്ള അവസാന മൊഡ്യൂളാണിത് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ വിവിധ വശങ്ങൾ പ്രത്യേകിച്ച് ശരീരഭാഷ ഞാൻ ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വ്യാഖ്യാനിക്കുക തിരിച്ചറിയുക തുടർന്ന് അവരുടെ ആന്തരിക ചിന്തകൾ ശരീരഭാഷയെ അടിസ്ഥാനമാക്കിയുള്ളവയുമായി കൃത്യമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് ഇന്ന് നമുക്ക് മനസിലാക്കാൻ ശ്രമിക്കാം ഇപ്പോൾ പതിവുപോലെ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് അവലോകനം ചെയ്യാം മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ശരീരഭാഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തുടർന്ന് അടിസ്ഥാനകാര്യങ്ങളെക്കുറിച്ചും സാർവത്രികതയെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തു അടിസ്ഥാനകാര്യങ്ങളെക്കുറിച്ചും സാർവത്രികതകളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുതരം നിരാകരണത്തോടെ ആരംഭിച്ചു ചില അടിസ്ഥാനപരവും സാർവത്രികവുമായ ശരീരഭാഷ പ്രയോഗിക്കുമ്പോൾ നാം ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ കാരണം പാശ്ചാത്യ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ആയുധങ്ങൾ കടക്കുന്നത് പോലുള്ള പ്രതിരോധ ആംഗ്യമായി കണക്കാക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ ആംഗ്യത്തെപ്പോലും അർത്ഥമാക്കും ചില സന്ദർഭങ്ങളിൽ ഒരു വ്യക്തി ആയുധങ്ങൾ കടക്കുന്ന രീതിയെ ആശ്രയിച്ച് ഒരുതരം ആക്രമണാത്മക ആംഗ്യത്തെ പോലും ഇത് സൂചിപ്പിക്കാം കാലുകൾ ആകർഷണത്തിന്റെ സൂചകങ്ങളായിരിക്കാമെന്നതിനാൽ നമ്മൾ കാലുകളിലേക്ക് നോക്കാൻ കുറച്ച് സമയം ചെലവഴിക്കുന്നു പക്ഷേ അവ പിൻവലിക്കലോ ഇഷ്ടപ്പെടാതിരിക്കലോ നിർദ്ദേശിച്ചേക്കാം പിന്നെ ഞാൻ തുറന്ന മനസ്സ് പ്രതിരോധശേഷി അരക്ഷിതാവസ്ഥ സഹകരണം ആത്മവിശ്വാസം പരിഭ്രാന്തി നിരാശ മുതലായവയെ സൂചിപ്പിക്കുന്ന കൂടുതൽ അടിസ്ഥാനങ്ങളും സാർവത്രികതകളും നോക്കാൻ തുടങ്ങി ശരീരഭാഷ എന്നത് സ്വതസിദ്ധമായ ഒന്നാണ് നമ്മുടെ സംവിധാനത്തിലുള്ള ഒന്നാണ് നമ്മുടെ അവിഭാജ്യഘടകമാണ് എന്ന ചിന്തയോടെ നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവസാനം ഞാൻ ഉപസംഹരിച്ചു നിങ്ങൾ ഒരു പരിശീലനത്തിന് പോകുകയും അത് നിങ്ങളിൽ ഉൾക്കൊള്ളാൻ ബാഹ്യമായി എന്തെങ്കിലും എടുക്കുകയും ചെയ്യേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ യാഥാർത്ഥ്യമാക്കണം നല്ല പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും നിങ്ങൾ അത് പ്രകടമാക്കണം അതിനാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എല്ലാ നുറുങ്ങുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഏറ്റവും രസകരവും വെല്ലുവിളി നിറഞ്ഞതുമായ വശത്തേക്ക് വരാം അത് നോൺ വെർബൽ സൂചകങ്ങളെ വ്യാഖ്യാനിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ സൂചനകൾ നുറുങ്ങുകൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനും ഒരു അർത്ഥം രൂപപ്പെടുത്താനും ഒരു യോജിച്ച ആശയം രൂപപ്പെടുത്താനും കഴിയുന്ന സൂചകങ്ങൾ എന്നിവയാണ് സൂചനകൾ 1971ൽ നിശബ്ദ സന്ദേശങ്ങളിൽ ആൽബർട്ട് മെഹ്റാബിയൻ മൂന്ന് പ്രാഥമിക മാനങ്ങൾ തിരിച്ചറിഞ്ഞു അവ എന്തൊക്കെയാണ് നോൺ വെർബൽ സൂചകങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മൂന്ന് പ്രാഥമിക മാനങ്ങൾ എന്തൊക്കെയാണ് ഉടനടി ഉത്തേജനം ആധിപത്യം എന്നിവയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഇവയാണ് മൂന്ന് പ്രാഥമിക മാനങ്ങൾ നമുക്ക് അവ നോക്കാം അവ യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് മനസിലാക്കാം ഇഷ്ടവും ആനന്ദവും ആശയവിനിമയം നടത്തുന്ന ഉടനടി സൂചനകളെ മധ്യസ്ഥത സൂചിപ്പിക്കുന്നു ഇമ്മീഡിയസി എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങുകയും നമ്മൾ ഇഷ്ടപ്പെടാത്തവരിൽ നിന്ന് അകന്നുപോകുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നു സാധാരണയായി നമ്മൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് സഹജമായി തീരുമാനിക്കുകയും പിന്നീട് നമ്മുടെ വികാരങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ ആകർഷിക്കുന്ന ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിലേക്ക് നീങ്ങുന്നു അതേ രീതിയിൽ ആരെങ്കിലും നമ്മെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളും ആ വ്യക്തിയെ നമ്മിലേക്ക് ആകർഷിക്കുന്നു പക്ഷേ ഇത് സൂചനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരാളോടുള്ള നമ്മുടെ സ്വാഭാവിക പ്രതികരണത്തെ ഉടനടി സൂചിപ്പിക്കുന്നു അദ്ദേഹം പരാമർശിക്കുന്ന അടുത്തത് ഉത്തേജനമാണ് ഇപ്പോൾ ലൈംഗിക അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല പക്ഷേ അത് ആനിമേഷന് സമാനമായ ഒന്നാണ് നിങ്ങൾ ആവേശത്തിലാകുമ്പോൾ ശരീരം മുഴുവൻ ആവേശഭരിതമാവുകയും നിങ്ങളുടെ പ്രതികരണശേഷി ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും കാണിക്കുകയും ചെയ്യുന്നു കണ്ണുകളിൽ നിന്ന് ആരംഭിച്ച് കണ്ണുകളുടെ വിപുലീകരണം ഡൈലേഷൻ എന്നിവ നിങ്ങൾക്ക് അതിൽ വളരെയധികം താൽപ്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ മൊത്തത്തിലുള്ള ശരീരം പ്രതികരണത്തിന്റെ കാര്യത്തിൽ ഒരുതരം ആനിമേഷൻ കാണിക്കുന്നു ഒരു വ്യക്തിയിൽ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സജീവവും കൂടുതൽ സജീവവും കൂടുതൽ ആവേശഭരിതരുമാണ് താൽപ്പര്യമില്ലെങ്കിൽ നമ്മൾ മരിച്ചതുപോലെ വളരെ നിഷ്ക്രിയരാകുന്നു നമ്മൾ ഒരു ശരീരഭാഷയും കാണിക്കുന്നില്ല നമ്മൾ നമ്മുടെ ശരീരഭാഷ അടയ്ക്കുന്നു ഒരു പരന്ന സ്വരവും വളരെ ചെറിയ ചലനവും താൽപ്പര്യക്കുറവിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു കപ്പ് കാപ്പി കുടിക്കാൻ താൽപ്പര്യമുണ്ടോ അതെ തീർച്ചയായും അത് നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ ഞാൻ എപ്പോഴും സന്തോഷിക്കും നിങ്ങൾക്ക് ഒരു കപ്പ് കാപ്പി കുടിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഉറപ്പില്ലായിരിക്കാം അതിനാൽ ഒരു കപ്പ് കാപ്പിക്കായി ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ നിങ്ങൾക്ക് അത്ര താൽപ്പര്യമില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ആധിപത്യം എന്നത് അദ്ദേഹം നൽകുന്ന മൂന്നാമത്തെ സൂചനയാണ് അധികാരത്തിന്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത് പദവി സ്ഥാനം ഉയർന്ന പദവി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ആളുകൾക്ക് സാധാരണയായി ശാന്തമായ ശരീര ഭാവമുണ്ട് അതേസമയം താഴ്ന്ന നിലയിലുള്ള ആളുകൾക്ക് ഒരുതരം സ്ഥിരമായ ശാരീരിക ഭാവമുണ്ട് അതിനാൽ അത് വീണ്ടും അധികാരത്തിന്റെ സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് ഒരു വശമാണ് എന്നാൽ അതേ സമയം ഇതിനൊപ്പം ഒരു ലളിതമായ മാർഗവും അദ്ദേഹം നിർദ്ദേശിക്കുന്നു മൂന്ന് സി കൾ ഓർമ്മിക്കുക സന്ദർഭം നോക്കൂ ഒരു വ്യക്തി പെരുമാറുന്ന നീങ്ങുന്ന ചില സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് നോക്കുന്ന സന്ദർഭം തിരിച്ചറിയുക തുടർന്ന് ആ ഗ്രൂപ്പിനെ സംയോജിപ്പിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ ക്ലസ്റ്റർ നിങ്ങൾ ക്ലസ്റ്റർ ചെയ്യുമ്പോൾ അത് ഒരു ഗ്രൂപ്പിൽ കാണാൻ ശ്രമിക്കുകയും തുടർന്ന് പെരുമാറ്റത്തിലെ മാറ്റം നോക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു ലളിതമായ ഉദാഹരണം ആൺകുട്ടി ഓഡിറ്റോറിയത്തിന്റെ മധ്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കുന്നു ഒരു പെൺകുട്ടി വരുന്നു തുടർന്ന് അവൾ ആദ്യം മൂലയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം പതുക്കെ മുറി നിറയുന്നു പെൺകുട്ടി എഴുന്നേറ്റ് ആൺകുട്ടിയുടെ അടുത്തുള്ള സീറ്റിൽ നോക്കുന്നു തുടർന്ന് അവൾ വന്ന് ആൺകുട്ടിയുടെ അടുത്തുള്ള സീറ്റിൽ ഇരിക്കുന്നു ആരെങ്കിലും നിങ്ങളോട് അടുക്കുകയാണെങ്കിൽ അത് സാദൃശ്യത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ശരീരഭാഷ സൂചകങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിയതിനാൽ താൻ സന്തോഷവാനാണെന്ന് ആൺകുട്ടി നിഗമനത്തിലേക്ക് ചാടുന്നു പക്ഷേ അവൾക്ക് അൽപ്പം പനി അനുഭവപ്പെടുന്ന സന്ദർഭം എന്താണെന്ന് നോക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു തുടർന്ന് എസി വളരെ തണുപ്പായിരുന്നു അവൾ എസിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു അതിനാൽ അവൾ മാറി മധ്യത്തിൽ ഒരു സ്ഥലം കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചു അവശേഷിക്കുന്ന ഒരേയൊരു ഇടം ആൺകുട്ടിയുടെ അടുത്തായിരുന്നു അതിനാൽ അതാണ് സന്ദർഭം അതിനാൽ സന്ദർഭത്തിൽ ലഭ്യമായ ബാഹ്യ സൂചനകൾക്കായി നിങ്ങൾ തിരയേണ്ടതുണ്ട് അത് ഗ്രൂപ്പുചെയ്യുന്ന വ്യക്തിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും തുടർന്ന് മാറ്റം തേടുകയും ചെയ്യുന്നു ഇപ്പോൾ ഗ്രൂപ്പിംഗ് സാധാരണയായി ഒരു വ്യക്തി രാവിലെ ബോസിനെ നോക്കി പുഞ്ചിരിക്കുകയാണെന്ന് പറയാം എന്നാൽ കഴിഞ്ഞ ദിവസം അവൻ എന്തെങ്കിലും മോഷ്ടിച്ചു അതിനാൽ അവൻ പുഞ്ചിരിക്കുകയില്ല പിന്നെ സാധാരണയായി അവൻ ഒഴിവാക്കുന്ന ഒരു ഹസ്തദാനം നൽകുന്നു ഇപ്പോൾ പെരുമാറ്റത്തിലെ മാറ്റം ഹാൻഡ്ഷേക്ക് ഒഴിവാക്കുക മാത്രമല്ല അത് നൽകുമ്പോൾ താൻ ഒഴിവാക്കുന്ന ഒരുതരം ഡെഡ് ഫിഷ് ഹാൻഡ്ഷേക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നതിനാൽ മാറ്റത്തിലേക്ക് നോക്കുക എന്നാൽ ഒരു മാറ്റമുണ്ട് അദ്ദേഹം നമസ്തേ സർ എന്ന് പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹം അവനെ അഭിവാദ്യം ചെയ്യുന്നു അതിനാൽ ഈ മാറ്റം പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരുതരം അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ സന്ദർഭ ക്ലസ്റ്റർ നോക്കുകയും മാറുകയും വേണം ഇപ്പോൾ ആളുകളെ തിരിച്ചറിയുന്നത് പോലുള്ള കാര്യങ്ങളും നമ്മൾ നോക്കണം നിങ്ങൾ ഒരു നോൺ വെർബലിസ്റ്റാകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വളരെ രസകരമായ ഒരു കാര്യമാണ് നിങ്ങളോട് സത്യം പറയുന്ന ഒരാളെ എങ്ങനെ തിരിച്ചറിയണം നിങ്ങളോട് നുണ പറയുന്ന ഒരാളെ എങ്ങനെ തിരിച്ചറിയണം പ്രത്യേകിച്ച് ഒരു നുണയനെ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ രസകരമാണ് അതിനാൽ വിയർപ്പ് വിരൽ നഖങ്ങൾ കടിക്കൽ വായയുടെ ഉൾവശം ചവയ്ക്കുക വായ വരണ്ടുപോകുക വായ മൂടുക തുടർന്ന് മൂക്കിൽ തുടർച്ചയായി തടവുക തുടങ്ങിയ ചില ലക്ഷണങ്ങളാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ ഈ കാര്യങ്ങളിലൂടെ സാധാരണയായി കുട്ടികൾക്കും പിന്നീട് ശരീരഭാഷയെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്കും അവർ ഒരു നുണ പറയാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പിടിക്കാൻ കഴിയും അതിനാൽ ചുരുക്കത്തിൽ അവർ മോശം നുണയന്മാരാണെങ്കിൽ അവർ ജ്ഞാനികളല്ല അവർ അനുഭവപരിചയമില്ലാത്തവരോ അല്ലെങ്കിൽ അവരെ നന്നായി അറിയാവുന്ന ഒരാളോട് കള്ളം പറയുകയാണോ എന്നാൽ ചില ആളുകൾ മികച്ച നുണയന്മാരാണ് മുകളിൽ പറഞ്ഞവയെല്ലാം മറച്ചുവെക്കാൻ കഴിയും ചിലർ തൊഴിൽപരമായി സത്യം മറച്ചുവെക്കേണ്ടതുപോലെയാണ് ഉദാഹരണത്തിന് അഭിഭാഷകർ അതിനാൽ അവർക്ക് ചിലപ്പോൾ കക്ഷിക്ക് അനുകൂലമായി വാദിക്കേണ്ടിവരും പക്ഷേ അവർക്ക് സത്യം അറിയാമായിരിക്കാം പക്ഷേ അവരെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അത് നുണയാണെന്ന് തോന്നുന്നു അതിനാൽ അവർ യഥാർത്ഥത്തിൽ സത്യം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്ന് കാണിക്കാതെ അവർക്ക് പറയേണ്ടി വരും അതിനാൽ അത് മറച്ചുവെക്കുന്നതിൽ അവർ മികച്ചവരായി മാറിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ നുണയന്മാരെ നോക്കുകയാണെങ്കിൽ അതായത് ഇത് ഉപയോഗിക്കുന്ന തൊഴിലിലുള്ളവർ അവർ യഥാർത്ഥത്തിൽ അവരുടെ ശരീര ആംഗ്യങ്ങൾ പരിഷ്കരിച്ചു അതിനാൽ മൂന്ന് സികളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന പെരുമാറ്റങ്ങളുടെ സംയോജനം നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ അവർ നുണ പറയുകയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയൂ പിന്നെ ആരെങ്കിലും കള്ളം പറയുകയാണോ എന്ന് പറയാനുള്ള കഴിവ് നിങ്ങളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഘടകത്തേക്കാൾ നിരീക്ഷിക്കേണ്ട നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ സാധാരണ പെരുമാറ്റത്തിൽ നിന്ന് പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങൾ മാറ്റുക സാധാരണ നേത്ര സമ്പർക്ക കാലയളവിലെ വ്യത്യാസം വ്യക്തി യഥാർത്ഥത്തിൽ നേത്ര സമ്പർക്കം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെ മുകളിലേക്ക് നോക്കുന്നതിനുപകരം മുകളിലേക്ക് നോക്കുന്നതിനുള്ള പ്രവണത പോലും അമിതമായ കൈ ആംഗ്യങ്ങൾ അല്ലെങ്കിൽ ആംഗ്യങ്ങളുടെ പൂർണ്ണമായ അഭാവത്തിൽ എന്തെങ്കിലും കൈ ആംഗ്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അതിനാൽ പോലീസ് ചോദ്യം ചെയ്യുന്നവർ എന്താണ് ചെയ്യുന്നത് ചിലപ്പോൾ അവർ അവരുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും അവരെ നഗ്നരാക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവർ കുറഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് സൂക്ഷിക്കുകയും തുടർന്ന് അവയിൽ പൂർണ്ണമായ ഫ്ളഡ് ലൈറ്റ് ഇടുകയും ചെയ്യുന്നു കൂടാതെ പ്രതി സത്യം പറയുകയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കൈകാലുകളിൽ നിന്ന് കണ്ണിൽ നിന്ന് ഏതെങ്കിലും ചെറിയ ചലനം പോലും അവർ നിരീക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു നുണ പറയും അതിനാൽ ടെലിഫോൺ കഴിവുകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നുണ പറയാനുള്ള ഏറ്റവും നല്ല മാർഗം ടെലിഫോണിലൂടെയാണ് മറ്റേയാൾ നിങ്ങളോടൊപ്പം മുഖാമുഖം ഇരിക്കാത്തതിനാലും ടെലിഫോണിൽ മറ്റൊരാളോട് വീണ്ടും നുണ പറയുന്നത് വളരെ എളുപ്പമായതിനാലും ശരീരഭാഷയിൽ അത്ര പരിശീലനം ലഭിക്കാത്തവർക്ക് അത്ര അടുപ്പമില്ലാത്തവർക്കും നിങ്ങളുടെ സ്വരത്തിലെ മാറ്റം കാണാൻ കഴിയാത്തവർക്കും മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ ഒരു നുണ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഭാഷാപരമായ തെറ്റുകൾ കാണുക അതിനാൽ അത് വളരെ അനുഭവപരിചയമില്ലാത്തവർക്കുള്ളതാണ് എന്നാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വിദഗ്ധരായ ഒരാൾക്ക് നിങ്ങൾ ഫോണിലൂടെ നുണ പറയാൻ ശ്രമിക്കുമ്പോൾ പോലും ചെറുതായി കാണാൻ കഴിയും എന്നാൽ ഫോണിൽ നേരിട്ട് നുണ പറയുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ പ്രഭാഷണത്തിന്റെ അടുത്ത ഭാഗം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതിന്റെ വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങൾ ആദ്യം അറിയേണ്ടത് നോൺ വെർബൽ സന്ദേശങ്ങൾ പലപ്പോഴും അവ്യക്തമാണ് അതായത് അവ ഒന്നായി കാണപ്പെടുന്നു പക്ഷേ അവ നിങ്ങൾക്ക് ഒന്നിലധികം അർത്ഥങ്ങൾ നൽകുന്നു ഞാൻ ഉടൻ ഒരു ഉദാഹരണം നൽകും എന്നാൽ എന്തെങ്കിലും ചിന്തിക്കുകയും ഒരു പെരുമാറ്റം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി ആ വ്യക്തി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നത് പോലെയല്ലെന്ന് മനസിലാക്കുക അതിനാൽ ഉദാഹരണത്തിന് എല്ലാത്തിനും മുഖഭാവങ്ങൾ മരവിപ്പിച്ച ആളുകളുണ്ട് ചില ആളുകൾ സന്തോഷവാനായിരിക്കുമ്പോൾ പുഞ്ചിരിക്കുക പോലും ചെയ്യുന്നില്ല അവർ ഉള്ളിൽ പുഞ്ചിരിക്കാം കണ്ണിൽ അവർ പുഞ്ചിരിക്കുകയാണെന്ന് ചെറിയ സൂചനയുണ്ട് പക്ഷേ അവർ പൊതുവെ സ്വഭാവത്താൽ ഗൌരവമുള്ള ആളുകളാണ് അതിനാൽ ആ വ്യക്തി അഗാധമായ ദുഃഖത്തിലാണെന്ന് ചിന്തിക്കുന്നതിലൂടെ രണ്ടാമത്തെ വെല്ലുവിളി വാക്കേതര സന്ദേശങ്ങൾ തുടർച്ചയാണെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാനാവില്ല അതിനാൽ അവർ വരുന്നത് നിർത്തുന്നില്ല അതിനാൽ അത് വീണ്ടും വെല്ലുവിളി നിറഞ്ഞ ആംഗ്യങ്ങളാണ് മുഖഭാവങ്ങളും കണ്ണ് സമ്പർക്കവും ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകാൻ കഴിയും സംസാരിക്കുന്നത് നിർത്താൻ കഴിയും പക്ഷേ നോൺ വെർബൽ സൂചകങ്ങൾ നിർത്താൻ പൊതുവെ സാധ്യമല്ല അടുത്ത വെല്ലുവിളി അവ മൾട്ടി ചാനൽ ആണ് അതിനാൽ നിങ്ങൾ മുഖം മാത്രം നോക്കുമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ ഒരു സമയം ഒരു നോൺ വെർബൽ ക്യൂ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്നാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ മുഖത്തേക്ക് നോക്കുമ്പോൾ കാലിൽ നിന്ന് ഏത് തരത്തിലുള്ള സൂചനയാണ് വരുന്നത് കാലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അവഗണിക്കുന്നു പുറകിൽ കൈകൾ വയ്ക്കുമ്പോൾ ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത് അതിനാൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ചാനൽ മാത്രമാണ് അപ്പോൾ മറ്റൊരു രസകരമായ കാര്യം നെഗറ്റീവ് നോൺ വെർബൽ കാര്യം പോസിറ്റീവിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുന്നുവെന്ന് ആളുകൾ പഠിച്ചു എന്നതാണ് അതായത് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ കോപം ആദ്യം നിങ്ങൾക്ക് കാണിക്കുകയും നിങ്ങൾ നെഗറ്റീവ് ഇൻപുട്ടുകൾ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും ആ വ്യക്തി അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സ് മാറ്റുകയും ഞാൻ ഒരു തെറ്റ് ചെയ്തുവെന്ന് തോന്നുകയും തുടർന്ന് അനുകമ്പ തോന്നുകയും മുഖത്തെ ഭാവം മാറ്റുകയും ചെയ്യുന്നു എന്നാൽ പോസിറ്റീവ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ സമയമെടുക്കുന്നു അതിനാൽ നിങ്ങൾ പഠന നോൺ വെർബൽ ആശയവിനിമയത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മറ്റൊരു അപകടമാണ് മറ്റൊരു രസകരമായ ഘടകം അത് സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ് അതിനാൽ മുമ്പത്തേതിൽ നമ്മൾ പഠിച്ച സാർവത്രികവും അടിസ്ഥാനപരവുമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവ സാംസ്കാരികമായി വ്യത്യസ്തമാണെന്നും കൂടുതൽ രസകരമായ കാര്യം ഒരു സംസ്കാരത്തിലെ പോസിറ്റീവ് ആംഗ്യങ്ങൾ മറ്റൊരു സംസ്കാരത്തിൽ അശ്ലീലമായി കാണപ്പെടാം എന്നതാണ് അതിനാൽ യുഎസ്എയിലെ തംബ്സ് അപ്പ് ആംഗ്യം ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പോലും പോസിറ്റീവ് ആയി കണക്കാക്കപ്പെടുന്നു അതിനാൽ ആംഗ്യം നെഗറ്റീവ് ആകുകയും പ്രത്യേകിച്ച് തള്ളവിരൽ വളരെ നേരെയാക്കുമ്പോൾ ദുരുപയോഗവും അപമാനവും സൂചിപ്പിക്കുകയും ചെയ്യും അതിനാൽ ഇതിന് ചില അധിക്ഷേപകരമായ അർത്ഥങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതിനാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്ന അവസാന മുന്നറിയിപ്പ് പ്രധാന കാര്യം ഒരു വിവരത്തെ എല്ലാം അർത്ഥമാക്കുന്ന രീതിയിൽ പ്രയോഗിക്കരുത് എന്നതാണ് താപനില കാലാവസ്ഥ കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ മറ്റൊരാളുടെ ചലനങ്ങൾക്ക് കാരണമാകുന്ന സാധ്യമായ എല്ലാ ഘടകങ്ങളും നിങ്ങൾ നിരീക്ഷിക്കണം അതിനാൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഓടുന്നു അതിനാൽ അവൾക്ക് എന്നോട് താൽപ്പര്യമുള്ളതിനാൽ അവൾ ഓടുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിനാൽ മഴ പെയ്യാൻ പോകുന്നു ഇതിനകം തന്നെ മഴ പെയ്യാൻ തുടങ്ങി അവൾ നനയാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിഴൽ ഉള്ളിടത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവൾ വരുന്നു അതിനാൽ കാലാവസ്ഥ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക കാലാവസ്ഥ എന്താണ് ചെയ്യുന്നത് ഈ വ്യക്തിയെ അത്തരത്തിൽ പെരുമാറാൻ ഇടയാക്കുന്ന മാറ്റം എന്താണ് അതിനാൽ നിഗമനങ്ങളിലേക്ക് പോകരുത് നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക മറ്റൊരാളുടെ ശീലങ്ങളുമായി സ്വയം പരിചയപ്പെടുക പ്രത്യേകിച്ചും നിങ്ങൾക്ക് ആ വ്യക്തിയെ ദീർഘകാലമായി അറിയാമെങ്കിൽ എന്തെങ്കിലും അനുമാനങ്ങൾ നടത്തുന്നതിന് മുമ്പ് ശീലങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ സാധാരണ പെരുമാറ്റം ആംഗ്യങ്ങൾ അടയാളങ്ങൾ ശരീരഭാഷ എന്നിവ ശ്രദ്ധിക്കുക മൂന്ന് സി കൾ പ്രത്യേകിച്ചും പെരുമാറ്റത്തിലെ മാറ്റം നിങ്ങൾക്ക് ധാരാളം സൂചനകൾ നൽകുമെന്ന് ഓർക്കുക എന്നാൽ അതേ സമയം പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും കാരണമാണോ മാറ്റം എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ലളിതമായ ഉദാഹരണം നോക്കൂ നിങ്ങൾ ഈ പട്ടിക്കുട്ടിയെ നോക്കുമ്പോൾ ഈ ചെറിയ നായ വായ തുറക്കുന്നു തുടർന്ന് അത് ആക്രമണാത്മകത കാണിക്കുന്നതായി തോന്നുന്നു നിങ്ങൾ അടുത്തേക്ക് പോയാൽ അത് നിങ്ങളെ കടിക്കാൻ പോകുന്നുവെന്ന് തോന്നുന്നു എന്നിരുന്നാലും നിങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി നോക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നതും തുടർന്ന് ചെവികൾ തിരിച്ചുവരുന്നതും നിങ്ങൾ കാണുന്നു കാരണം ആക്രമണങ്ങളിൽ കണ്ണുകൾ വിശാലമായി തുറന്നിരിക്കുകയും ചെവികൾ നേരായതും മുകളിലേക്ക് ചൂണ്ടുന്നതുപോലെയുമാണ് ഇപ്പോൾ ഇത് നായക്കുട്ടിക്ക് ഉറക്കം വരുന്നു അത് ഒട്ടും ആക്രമണാത്മകമല്ല മറുവശത്ത് പൂർണ്ണമായും ക്ഷീണം തോന്നുകയും വിശ്രമിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് വായ തുറന്ന സമയം നോക്കിയാൽ മാത്രമേ നിങ്ങൾ നിഗമനത്തിലെത്താൻ കഴിയൂ തുടർന്ന് അത് നിങ്ങളെ കടിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾ കരുതി പക്ഷേ യഥാർത്ഥത്തിൽ അത് ആവലാതി ആയിരുന്നു അതിനാൽ മനുഷ്യ ആശയവിനിമയത്തിന്റെ കാര്യത്തിലും ഇത് സംഭവിക്കാം നിങ്ങൾക്ക് ഒരു കാര്യം നോക്കാം തുടർന്ന് നിങ്ങൾ നിഗമനത്തിലേക്ക് കടക്കാൻ ശ്രമിക്കാം സംഭവിക്കാവുന്ന മറ്റൊരു കാര്യം കൂടുതലും വസ്ത്രത്തിൻറെയും രൂപത്തിൻറെയും കാര്യത്തിലാണ് അതിനാൽ വസ്ത്രവും രൂപവും നോൺ വെർബൽ ആശയവിനിമയമാണ് നമ്മുടെ പ്രായം ലിംഗഭേദം പദവി സാമൂഹിക സാമ്പത്തിക വർഗം വംശം എന്നിവ ആരാണെന്ന് പറയുക പക്ഷേ ശരീരഭാഷ നോൺ വെർബൽ ആശയവിനിമയം ഒരു കൃത്യമായ ശാസ്ത്രമല്ല നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളെയും രൂപത്തെയും അടിസ്ഥാനമാക്കി മോശമോ തെറ്റോ ആയ ആദ്യ മതിപ്പ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് വളരെ സ്മാർട്ട് വളരെ സുന്ദരൻ ശരിക്കും ആകർഷകവും ബുദ്ധിമാനുമായി കാണപ്പെടുന്ന പെൺകുട്ടി ഹൃദയത്തിൽ ശരിക്കും നല്ലവരായിരിക്കില്ല അവർക്ക് അത്രയും നീചനായിരിക്കാം അത്രയും മോശമായി കാണപ്പെടുന്ന ആൾ അപ്പോൾ അത്രയും അപരിഷ്കൃതനായ ഒരു യഥാർത്ഥ നല്ല സുഹൃത്തായിരിക്കാം ശരിക്കും വിശ്വസ്തനായിരിക്കാം ശരിക്കും ആത്മാർത്ഥതയുള്ളവനായിരിക്കാം അതിനാൽ രൂപത്തെക്കുറിച്ച് നാം കേൾക്കുന്ന ചില പഴഞ്ചൊല്ലുകൾക്ക് അവയിൽ തിളങ്ങുന്നതെല്ലാം സ്വർണ്ണമല്ല രൂപം വഞ്ചനാപരമാണ് എന്നതുപോലുള്ള ചില പദങ്ങൾ ഉണ്ട് അതിനാൽ അവ മനസ്സിൽ വയ്ക്കുക എന്നിട്ട് ഒരു നുള്ള് ഉപ്പ് ഉപയോഗിച്ച് ഉപയോഗിക്കുക നിങ്ങൾ ആരെയെങ്കിലും നോക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് തുടക്കത്തിൽ നല്ല മതിപ്പ് ഉണ്ടാക്കാം പക്ഷേ അവരുടെ പ്രവർത്തനവും സ്ഥിരമായി സ്ഥിരീകരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാവുന്ന അടുത്ത ചോദ്യം ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഉപബോധമനസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ എല്ലായ്പ്പോഴും പ്രദർശിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാഷയെ എങ്ങനെ നിയന്ത്രിക്കും എന്നതാണ് അപ്പോൾ നമ്മൾ അത് എങ്ങനെ നിയന്ത്രിക്കും ഇപ്പോൾ ശരീരഭാഷ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അതിനെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കുക എന്നതാണ് ഈ ആഴ്ച മുഴുവൻ ഞാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബോഡി ലാംഗ്വേജിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കപ്പെടുകയും എന്താണ് നല്ലതെന്നും ചീത്തയെന്നും നിങ്ങൾക്ക് അറിയുകയും ചെയ്യുന്നു എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് കുറഞ്ഞത് നെഗറ്റീവ് ശരീരഭാഷയെങ്കിലും നിങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം തുടർന്ന് ആളുകൾ സ്വഭാവത്താൽ വ്യത്യസ്തരാണ് വളരെ തുറന്ന ശരീരഭാഷയുള്ള ചില ആളുകളുണ്ട് അവർ എല്ലായ്പ്പോഴും അവരുടെ ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നു അവരുടെ മുഖം വളരെ ആനിമേറ്റഡ് ആണ് അതിനാൽ നിങ്ങൾക്ക് വളരെ സുതാര്യമായി കാണാൻ കഴിയുമെന്ന് തോന്നുന്ന എന്തും പ്രകടിപ്പിക്കുന്നു എന്നാൽ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ യഥാർത്ഥത്തിൽ പഠിക്കുന്ന മറ്റ് ചിലരുണ്ട് അവർ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്നോ അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് അനുഭവപ്പെടുന്നതെന്നോ നിങ്ങൾ മുഖത്ത് നിന്ന് യഥാർത്ഥത്തിൽ കാണുന്നില്ല ഒരു നടനെ നോക്കൂ ഒരു നടൻ പഠിക്കുന്ന ആദ്യത്തെ തന്ത്രം തൻ്റെ ശരീരം കൊണ്ട് മുഖം കൊണ്ട് മാത്രമല്ല മുഴുവൻ ശരീരം കൊണ്ടും വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കാം എന്നതാണ് വളരെ പ്രശസ്തരായ അഭിനേതാക്കളെ നിങ്ങൾ കണ്ടാൽ അവരെ പുറകിൽ കാണിക്കുന്നു അതിനാൽ അവർ കരയുന്നു അവർ കരയുന്നു അവർക്ക് സങ്കടം തോന്നുന്നു പക്ഷേ ശരീരത്തിന്റെ പിൻഭാഗത്ത് നിന്ന് അവർക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കാനും കഴിയും നായകനെ പരിചയപ്പെടുത്തുമ്പോൾ ആത്മവിശ്വാസമുള്ള നടത്തം നിങ്ങൾക്ക് കാലുകൾ കാണിക്കുന്നു യഥാർത്ഥത്തിൽ ക്യാമറ മുകളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാലുകൾ കാണിക്കുന്നു തുടർന്ന് ക്യാമറ മുഖം കാണിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ വ്യക്തിക്ക് എങ്ങനെ കാലുകളിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും അതിനാൽ അത് പരിശീലന വിജ്ഞാന വൈദഗ്ധ്യത്തിലൂടെയാണ് അത് നിങ്ങൾക്കും വികസിപ്പിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പുറം തിരിഞ്ഞ് നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ ഉണ്ടെന്ന് അവരെ ബോധവാന്മാരാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പുറകിൽ നിന്ന് പോലും നിങ്ങളുടെ കൈകൊണ്ട് പോലും ഒരു വശത്ത് നിങ്ങൾക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും എന്നാൽ മറുവശത്ത് അവ നിങ്ങളുടെ മനസ്സിലുള്ളത് കൃത്യമായി സൂചിപ്പിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയുമ്പോഴോ അല്ലെങ്കിൽ മറ്റേ വ്യക്തിക്ക് അർത്ഥം നൽകുന്ന കാര്യത്തിൽ അവ നിഷേധാത്മകമാകുമെന്ന് നിങ്ങൾക്കറിയുമ്പോഴോ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ ആ നിഷേധാത്മകവും അനാവശ്യവുമായ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ശരീരഭാഷ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ കഴിവുള്ള ആശയവിനിമയക്കാരാകാൻ ശ്രമിക്കണം ആരാണ് യോഗ്യതയുള്ള ആശയവിനിമയക്കാർ എന്താണ് സൂചനകൾ ഇപ്പോൾ യോഗ്യതയുള്ള ആശയവിനിമയക്കാർ അവരുടെ വാക്കേതര സന്ദേശങ്ങൾ നിരീക്ഷിക്കുന്നതിൽ മികച്ചവരാണ് ശരീരഭാഷ ഉപയോഗിച്ച് അവർ എങ്ങനെ സന്ദേശങ്ങൾ അയയ്ക്കുന്നുവെന്ന് അവർക്കറിയാം മറ്റുള്ളവരിൽ നിന്നുള്ള സന്ദേശങ്ങൾ നിരീക്ഷിക്കാനും അവർക്ക് കഴിയും മറ്റുള്ളവരുടെ നോൺ വെർബൽ പെരുമാറ്റം പഠിക്കാനും നിങ്ങളുടെ സ്വന്തം നോൺ വെർബൽ പെരുമാറ്റം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരുതരം വൈകാരിക ബുദ്ധിയാണിത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വിശാലമായ നോൺ വെർബൽ പെരുമാറ്റങ്ങൾ വികസിപ്പിക്കാൻ അവർക്ക് കഴിയും ഇതിനർത്ഥം ഒരു ഔപചാരിക അവസരത്തിൽ അവർക്ക് വളരെ ഔപചാരികമാകാം ഒരു അനൌപചാരിക അവസരത്തിൽ അവർക്ക് സ്വതന്ത്രരാകാം അവർക്ക് വളരെ തമാശ പറയാനും തമാശ പറയാനും കഴിയും അവരുടെ ശരീരഭാഷയിൽ അവർക്ക് പൂർണ്ണമായും സ്വതന്ത്രരാകാനും കഴിയും അവർ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും കോപം കാണിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് കോപം കാണിക്കാൻ കഴിയും കോപം കാണിക്കാൻ കഴിയുന്ന സന്ദർഭ സാഹചര്യമല്ല ഇതെന്ന് അറിയുമ്പോൾ അവർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന് അവർക്ക് വിശാലമായ നോൺ വെർബൽ പെരുമാറ്റങ്ങൾ വികസിപ്പിക്കാൻ കഴിയും ഇപ്പോൾ അടുത്ത ചോദ്യം ഞാൻ തുടക്കത്തിൽ ചോദിച്ചതാണ് എന്നാൽ ഇപ്പോൾ മറ്റൊരു രീതിയിൽ നമ്മൾ എന്തിനാണ് ശരീരഭാഷ പഠിക്കേണ്ടത് തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ചില വാദങ്ങൾ ഓർമ്മിക്കാൻ ദീർഘകാലത്തേക്ക് വ്യാജ ശരീരഭാഷ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങളുടെ ശരീരഭാഷ ഉപയോഗിച്ച് ഒരു നുണ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധ്യമല്ല അതിനാൽ നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് സത്യം സംസാരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കരുത് തുടർന്ന് നെഗറ്റീവ് സിഗ്നലുകൾ നൽകുന്ന ആംഗ്യങ്ങൾ ഇല്ലാതാക്കാൻ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ പഠിക്കുകയും പോസിറ്റീവ് ഓപ്പൺ ആംഗ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് പോസിറ്റീവ് ആംഗ്യങ്ങൾ ഉപയോഗിക്കുകയും നെഗറ്റീവ് ആംഗ്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്താണ് സംഭവിക്കുക ആളുകൾ തെറ്റുപറ്റാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്കറിയാവുന്നതിനാൽ നിങ്ങൾക്ക് ആളുകളോടൊപ്പമായിരിക്കാൻ കൂടുതൽ സുഖം തോന്നും നിങ്ങൾ വാക്കാലുള്ളതും അല്ലാത്തതുമായ ആശയവിനിമയത്തിൽ മികച്ചവരായതിനാലും അവർക്ക് കൂടുതൽ സ്വീകാര്യമാകുമെന്നതിനാലും ഏതെങ്കിലും കാരണങ്ങളാൽ നിങ്ങളെ തെറ്റിദ്ധരിക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ നിരുപദ്രവകാരികളാണെന്ന് അവർക്കറിയാം നിങ്ങൾ മനോഹരനാണ് നിങ്ങൾ സംസാരിക്കാൻ നല്ലതാണ് നിങ്ങൾ എന്തെങ്കിലും മറച്ചുവെക്കുന്നില്ലെന്ന് അവർക്കറിയാം അപ്പോൾ നിങ്ങൾ സത്യസന്ധരാണെന്നും നിങ്ങൾ ആശയവിനിമയത്തിൽ തുറന്ന മനസ്സുള്ളവരാണെന്നും അത് യഥാർത്ഥത്തിൽ നിങ്ങളെ വളരെ സന്തോഷകരവും യോജിച്ചതുമായ അന്തരീക്ഷത്തിലും ചുറ്റുപാടുകളിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അവർക്കറിയാം ചുരുക്കത്തിൽ നിങ്ങൾ വികസിപ്പിക്കേണ്ട പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് സൂചകങ്ങൾ എന്തൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെക്കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിൽ ഞാൻ അവരോട് വിവിധ സമയങ്ങളിൽ ചിതറിക്കിടക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് പുഞ്ചിരിക്കുന്നു അതിനാൽ ആ നടനെയോ നടിയെയോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് പരസ്യത്തിലെ മോഡലുകളെയോ പോലെ നിങ്ങൾ വളരെ വിശാലമായി പുഞ്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ആളുകൾ നിങ്ങളെ കളിയാക്കാൻ പോകുന്നുവെങ്കിൽപ്പോലും സാധ്യമാകുന്നിടത്തെല്ലാം പുഞ്ചിരിക്ക് പകരം മറ്റൊന്നും പോകുന്നില്ല അടുത്തത് തുറന്ന ഭാവമാണ് അതിനാൽ അടച്ച പ്രതിരോധമാണ് എന്നാൽ തുടർന്ന് കൈകൾ തുറക്കുക ഏത് തരത്തിലുള്ള തുറന്ന ആംഗ്യവും കൈ തുറക്കുക അത് നിങ്ങൾ സത്യസന്ധനാണെന്ന് സൂചിപ്പിക്കുന്നു തുടർന്ന് ഫോർവേഡ് ലീൻ അതിനാൽ ചർച്ചയ്ക്കിടെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഫോർവേഡ് ലീൻ സൂചിപ്പിക്കുന്നത് സഹാനുഭൂതി സഹതാപം താൽപ്പര്യം മറ്റേ വ്യക്തിയോടുള്ള ചായ്വ് എന്നിവയെ സൂചിപ്പിക്കുന്നു ഇത് മുന്നിൽ ഇരിക്കുന്നയാൾക്ക് കൂടുതൽ സുഖകരമാക്കുന്നു അതിനാൽ നിങ്ങൾ പുറകിൽ കുനിഞ്ഞ് കഴുത്തിൽ കൈവെച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ അക്രമാസക്തരാകുകയും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല സ്പർശിക്കുക സൌമ്യമായി ഉപയോഗിക്കുക രോഗശാന്തിക്കായി ഉപയോഗിക്കുക അതിനാൽ അത് ഹസ്തദാനം അല്ലെങ്കിൽ പാറ്റ് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ആരെയെങ്കിലും സൌമ്യമായി സ്പർശിക്കുക അതിനാൽ ഇതെല്ലാം നിങ്ങളെ മറ്റേ വ്യക്തിയുമായി ബന്ധിപ്പിക്കുകയും വാക്കുകൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു അനൌപചാരികവും അനൌപചാരികവുമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒന്നാണ് നേത്ര സമ്പർക്കം നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിലും കഴിയുന്നത്ര കണ്ണ് സമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കുക സജീവമായ ശ്രവണത്തിൽ വളരെ പ്രധാനപ്പെട്ട ആംഗ്യങ്ങളും തലകളും ആശയവിനിമയത്തിൽ വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ആംഗ്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ നോഡുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യനാകുകയും അവർ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു അതിനാൽ ഇവ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഇൻഡിക്കേറ്ററുകളാണ് ശ്രദ്ധ ചെലുത്തുന്നതിലൂടെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ അനുകരിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് മുമ്പ് കണ്ടെത്തുന്ന നല്ല ആംഗ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിലൂടെയും നിങ്ങൾ വികസിപ്പിക്കേണ്ട എക്സ്പ്രഷനുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെപ്പോലെ അവർ പുഞ്ചിരിക്കുന്ന രീതി അവർ മുന്നോട്ട് ചായുന്ന രീതി അവർ സ്പർശനം ഉപയോഗിക്കുന്ന രീതി കണ്ണുമായി സമ്പർക്കം പുലർത്തുന്ന രീതി എന്നിവ പോലെ എല്ലായ്പ്പോഴും പരിശീലിക്കുക അതിനാൽ അത് നിരീക്ഷിക്കുക തുടർന്ന് നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുക തുടർന്ന് അത് നിങ്ങളിൽ വികസിപ്പിക്കുക ഇപ്പോൾ ഈ നിഗമനത്തിലേക്ക് നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ ഒരു വിദഗ്ദ്ധനാണോ എന്ന് പരിശോധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള ഒരു രംഗം ഞാൻ നൽകുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു ചിത്രം പിന്നെ ആരാണ് കൂടുതൽ താൽപ്പര്യമുള്ളതെന്ന് എന്നോട് വേഗത്തിൽ തൽക്ഷണം പറയാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതിനാൽ ഞാൻ മതിയായ അടിസ്ഥാനകാര്യങ്ങളും സാർവത്രികവും നൽകിയിട്ടുണ്ട് തുടർന്ന് നിങ്ങൾ അടിസ്ഥാനകാര്യങ്ങളും സാർവത്രികവും പ്രയോഗിക്കുകയാണെങ്കിൽപ്പോലും ഇവിടെ രണ്ട് ആളുകളുണ്ട് ഒരാൾ സ്ത്രീയും മറ്റൊരാൾ പുരുഷനുമാണ് അവർക്ക് ഇവിടെ സംഭവിക്കുന്നതിൽ കൂടുതൽ താൽപ്പര്യമുണ്ട് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ നിഗമനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം നൽകുകയും ഇതിന് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അതിനാൽ ഞാൻ അടയാളപ്പെടുത്തിയത് നോക്കൂ രണ്ട് കേസുകളിലും കണ്ണ് സമ്പർക്കം നിലനിർത്തുന്നു അതിനാൽ അവർ ഒരു ഘട്ടത്തിൽ പരസ്പരം സത്യസന്ധരാണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഇപ്പോൾ സ്ത്രീയുടെ മുൻവശത്തെ മുടി അവളുടെ കൈ തുറന്നിരിക്കുന്നു അവൾ എന്തെങ്കിലും നൽകുന്നു നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അവർ ഒരുതരം ബാർട്ടറിംഗിൽ ഏർപ്പെട്ടിരിക്കാം അതായത് പണമില്ലാതെ അവർ ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നു ഒരുപക്ഷേ അവൾ ഏതെങ്കിലും തരത്തിലുള്ള കല്ല് നൽകുന്നുണ്ടാകാം പകരം അവൻ ഏതെങ്കിലും തരത്തിലുള്ള തറയോ മറ്റോ നൽകുന്നുണ്ടാകാം പക്ഷേ കൈമാറ്റത്തിൽ അവൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെന്ന് തോന്നുന്നു കാരണം മുൻവശത്തെ മുടി കണ്ണ് സമ്പർക്കം തുടർന്ന് കൈ പുറത്തേക്ക് നീണ്ടുനിൽക്കുന്നു തുടർന്ന് കാലുകൾ പോലും ഈ വശത്താണ് ഇപ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവനെ നോക്കുകയാണെങ്കിൽ അതിനാൽ ഒരു കൈ ഏതാണ്ട് മറഞ്ഞിരിക്കുന്നു മറ്റേത് കൈപ്പത്തി പോലും പുറകിലാണ് അതിനാൽ അത് സൂചിപ്പിക്കുന്നത് അവൻ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് അവന് അത്ര താൽപ്പര്യമില്ല എന്നാൽ നിങ്ങൾ രണ്ടുപേരുമായും താരതമ്യപ്പെടുത്തുമ്പോൾ കാലുകൾ നോക്കുകയാണെങ്കിൽ അവന്റെ കാര്യത്തിൽ രണ്ട് കാലുകളും തുറന്നിരിക്കുന്നത് അയാൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവളുടെ ഒരു കാൽ പുറകിലാണ് ഇരിപ്പിടം ഇല്ലാത്തതിനാൽ കസേരയോ ഇരിക്കാൻ മറ്റോ ഇല്ലാത്തതിനാൽ അവൾ മറ്റേ കാൽ ഉപയോഗിച്ച് പിന്തുണയ്ക്കുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം എന്നാൽ ഒരു കാൽ പുറകിലും മറ്റേ കാൽ മുൻപിലും പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ അന്ധമായി പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കുകയും ഈ വ്യക്തിയുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവന്റെ കാര്യത്തിൽ രണ്ട് കാലുകളും മുന്നിലും തുറന്നിരിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെന്ന് നിഗമനം ചെയ്യുന്നത് ഇപ്പോൾ ഒരു പരിധിവരെ തെറ്റിദ്ധാരണയാണ് അതിനാൽ ചിലപ്പോൾ അവൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഒരുപക്ഷേ അവൾ എന്തെങ്കിലും പിൻവലിക്കുന്നുണ്ടാകാം തുടർന്ന് ഈ വ്യക്തിയും തുറന്നിരിക്കാം ഒരുപക്ഷേ അവനും എന്തെങ്കിലും പിൻവലിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം ഒരുപക്ഷേ അവർ ഒരു ബിസിനസ്സ് തരത്തിലുള്ള ബന്ധത്തിലായിരിക്കാം അതിനാൽ അവർ പരസ്പരം എന്തെങ്കിലും കൈമാറാൻ ശ്രമിക്കുകയാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഒരാൾക്ക് അത്ര എളുപ്പത്തിൽ എന്തെങ്കിലും നൽകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും മികച്ച ഇടപാട് നടത്താൻ അവർ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കരുത് അതിനാൽ അവർക്ക് രണ്ടുപേർക്കും ഇടപാടിൽ താൽപ്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ അവർ അവരുടേതായ തലത്തിൽ കാര്യങ്ങൾ തടഞ്ഞുവയ്ക്കുന്നു അതിനാൽ ഒരു നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സ്ത്രീക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെന്ന് തോന്നുന്നുവെന്ന് നമുക്ക് അറിയാൻ കഴിയും എന്നാൽ അതുപോലെ തന്നെ തുറന്ന കാലുകൾ കാരണം വ്യക്തിയും കൂടുതൽ താൽപ്പര്യമുള്ളതായി കാണപ്പെടുന്നു കൂടാതെ ഒരു കാൽ പുറകിൽ വച്ചിരിക്കുന്നതിനാൽ സ്ത്രീ എന്തെങ്കിലും തടഞ്ഞുവെക്കുന്നതായി കാണുന്നു അതിനാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നത് ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കയറാൻ പോകുന്നില്ല ഇതാണ് അന്തിമ സന്ദേശം അതാണ് അവർ ചെയ്യുന്നത് ഞാൻ ഇത് അൽപ്പം തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അടിസ്ഥാനകാര്യങ്ങളും സാർവത്രികവും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങളോട് പറയാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് മിക്ക സമയത്തും നിങ്ങൾ കൂടുതൽ സൂചനകൾ വികസിപ്പിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റായിരിക്കില്ല ഇതിനെ ഞങ്ങൾ അവബോധം എന്ന് വിളിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന നോൺ വെർബൽ സൂചനകളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അവബോധത്തെ പിന്തുണയ്ക്കുന്നു അതിനാൽ ഈ പ്രഭാഷണം യഥാർത്ഥത്തിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് ഞാൻ നൽകേണ്ട പൊതുവായ വിവരങ്ങൾ അവസാനിപ്പിക്കുന്നു അടുത്ത രണ്ട് പ്രഭാഷണങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അഭിമുഖങ്ങളിൽ നിങ്ങൾക്ക് ശരീരഭാഷയെ എങ്ങനെ നോക്കാം എന്നതിലും തുടർന്ന് ഗ്രൂപ്പ് ചർച്ചകളിൽ ശരീരഭാഷ എങ്ങനെ നിലനിർത്താം എന്നതിലുമാണ് അതിനാൽ ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു